നമസ്കാരം കഴിഞ്ഞ സെഷനിൽ നമ്മൾ ത്രീ ഫേസ് സർക്യൂട്ടിന്റെ ഫേസ് ക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു നമ്മളുടെ ചർച്ച ആ ഭാഗം മുതൽ തുടരാം നമ്മൾ ത്രീ ഫേസ് വോൾട്ടേജ് സ്രോതസ്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേസ് സീക്വൻസിംഗിന് സാധ്യമായ രണ്ട് കോമ്പിനേഷനുകൾ ഉണ്ട് ആദ്യ സീക്വൻസിൽ നമ്മൾ ഇതിനെ എന്നും പോസിറ്റീവ് സീക്വൻസ് എന്നും വിളിക്കുന്നു റഫറൻസ് വോൾട്ടേജ് Van Vbn നെ നേക്കാൾ 120 ഡിഗ്രി മുന്നിലായിരിക്കും Vbn വീണ്ടും Vcn നെ നേക്കാൾ 120 ഡിഗ്രി മുന്നിലായിരിക്കും അതിനാൽ നമുക്ക് എഴുതാം abc സീക്വൻസ് അപ്രദക്ഷിണമായി കറങ്ങുന്നു അത് ജനറേറ്ററിന്റെ റോട്ടറിന്റെ ഭ്രമണ ദിശയിലാണ് ഇപ്പോൾ സാധ്യമായ അടുത്ത കോമ്പിനേഷൻ acb സീക്വൻസാണ് ഇതിനെ നെഗറ്റീവ് സീക്വൻസ് എന്ന് വിളിക്കുന്നു റഫറൻസ് ഫേസർ അതായത് Van Vcn നെ നേക്കാൾ 120 ഡിഗ്രി മുന്നിലായിരിക്കും Vcn വീണ്ടും bcn നേക്കാൾ 120 ഡിഗ്രി മുന്നിലായിരിക്കും നമുക്ക് ഗണിതശാസ്ത്രപരമായി എഴുതാം ഫേസ് സീക്വൻസ് abc ഈ ദിശയിൽ കറങ്ങും ഇത് റോട്ടറിന്റെ ഭ്രമണ ദിശയ്ക്ക് വിപരീതമായിരിക്കും നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ജനറേറ്റർ കണക്ഷൻ പോലെ ത്രീ ഫേസ് ലോഡും Y കണക്റ്റു ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാർ കണക്റ്റു ചെയ്യാം അല്ലെങ്കിൽ ഡെൽറ്റ കണക്റ്റു ചെയ്തിരിക്കാം ആ പ്രത്യേക ലോഡുമായി ഏത് തരത്തിലുള്ള അന്തിമ ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കണക്റ്റുചെയ്ത Y ൽ ന്യൂട്രൽ ഉപയോഗിച്ച് നക്ഷത്ര സംയോജനത്തിൽ കണക്റ്റുചെയ്തിരിക്കുന്ന ലോഡ് ഘടകങ്ങൾ ഉണ്ടാകും ഇത് ലഭ്യമായേക്കാം അല്ലെങ്കിൽ ന്യൂട്രൽ ലഭ്യമായേക്കില്ല നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ന്യൂട്രൽ സാന്നിധ്യമുണ്ടെന്നും കണക്ഷനുകളിൽ എത്തിച്ചേരാനാകുമെന്നും ആവശ്യമില്ല ഇവിടെ നിങ്ങൾക്ക് ലോഡിനായി ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ലോഡിനായി ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ഉണ്ടായിരിക്കാം അടുത്ത കോമ്പിനേഷൻ ഡെൽറ്റ കണക്ഷനാണ് അടിസ്ഥാനപരമായി ഇത് ഡെൽറ്റ കണക്റ്റുചെയ്ത കോൺഫിഗറേഷനാണ് എബിസി ത്രികോണാകൃതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതായും ഫേസ് abc ലോഡിൽ നിന്ന് പുറത്തെടുക്കുന്നതായും ഇവിടെ കാണാം ഈ പ്രത്യേക ക്രമീകരണത്തിൽ ന്യൂട്രൽ കണക്ഷൻ പുറത്തെടുക്കാൻ കഴിയില്ല കാരണം ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിൽ നിന്ന് ന്യൂട്രൽ കണക്ഷൻ എടുക്കുന്നത് അസാധ്യമാണ് ഇപ്പോൾ ഇത് സ്റ്റാർ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിലും ഡെൽറ്റ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിലും അത് അസന്തുലിതമാണെങ്കിൽ ഫേസ് ഇംപെഡൻസ് തുല്യമാകില്ലെന്ന് നമ്മൾ പറയും ഫേസ് സീക്വൻസ് ഫേസിന് പുറത്തായിരിക്കും ഇവിടെ മാഗ്നിറ്റ്യൂഡും ഫേസും അല്ലെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നോ ഫേസിന് പുറത്തായിരിക്കും അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഫേസും രണ്ടും ഫേസിന് പുറത്തായിരിക്കും ലോഡ് സമതുലിതമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം ലോഡിന്റെ മൂന്ന് കാലുകളിലെയും ഫേസ് ഇംപെൻഡൻസ് തുല്യവും ഫേസിലും ആയിരിക്കും ഫേസിൽ ആയിരിക്കും എന്നതിനർത്ഥം ഫേസുമായി ബന്ധപ്പെട്ട് തുല്യമായിരിക്കും സമീകൃത നക്ഷത്രം കണക്റ്റുചെയ്തതോ Y കണക്റ്റുചെയ്ത ലോഡിന്റെയോ കാര്യത്തിൽ Z1 Z2 Z3 എല്ലാം തുല്യമായിരിക്കും Zy എന്നത് ഒരു ഫേസർ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ മൂന്ന് കാലുകളിലും മാഗ്നിറ്റ്യൂഡും ഫേസും രണ്ടും തുല്യമാണ് സമതുലിതമായ ഡെൽറ്റ കണക്ഷൻ കാര്യത്തിൽ ഉണ്ടാകുന്നത് Za Zb Zc ZΔ നക്ഷത്ര കണക്ഷനിൽ വ്യക്തിഗത കാലുകളുടെ ഇംപെഡൻസ് ZY ആയി വ്യക്തമാക്കും ഡെൽറ്റ കണക്ഷൻ കാര്യത്തിൽ നാം ZΔ ആയി വ്യക്തമാക്കും മുമ്പത്തെ പ്രഭാഷണത്തിൽ സ്റ്റാർ ഡെൽറ്റ പരിവർത്തനത്തെക്കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തു ZY യുടെ കാര്യത്തിൽ നമ്മൾ മുമ്പ് തെളിയിച്ച സ്റ്റാർ ഡെൽറ്റ പരിവർത്തനത്തിന്റെ റഫറൻസ് എടുക്കുക ഡെൽറ്റ കണക്റ്റുചെയ്ത നെറ്റ്വർക്കിനെ സ്റ്റാർ കണക്റ്റുചെയ്ത നെറ്റ്വർക്കിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ZΔ 3 ZY സമാനമായി ഒരു നക്ഷത്ര കണക്റ്റുചെയ്ത ലോഡിനെ ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിലേക്ക് പരിവർത്തനം ചെയ്യാം അതിനാൽ സ്റ്റാർ കണക്റ്റുചെയ്തതോ Y കണക്റ്റുചെയ്തതോ ആയ ലോഡിനെ ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിലേക്ക് പരിവർത്തനം ചെയ്യാമെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സ്റ്റാർ ഡെൽറ്റ പരിവർത്തനത്തിന്റെ സഹായത്തോടെ തിരിച്ചും ചെയ്യാം നിങ്ങൾക്ക് ഉറവിടവും ലോഡും ഉണ്ട് രണ്ട് ഫേസും നക്ഷത്രം അഥവാ ഡെൽറ്റാ രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഉറവിടവും ലോഡും തമ്മിലുള്ള കണക്ഷനുകളുടെ സാധ്യമായ നാല് കോമ്പിനേഷനുകൾ നമുക്ക് ഇപ്പോൾ ഉണ്ട് • YY കണക്ഷൻ അതായത് Y കണക്റ്റുചെയ്ത ഉറവിടം Y കണക്റ്റുചെയ്ത ലോഡ് • Y ∆ കണക്ഷൻ • ∆ ∆ കണക്ഷൻ • ∆ Y കണക്ഷൻ സമതുലിതമായ Y കണക്റ്റുചെയ്ത ലോഡിനേക്കാൾ സമതുലിതമായ ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡ് നെറ്റ്വർക്കിൽ സാധാരണമാണ് എന്ന കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിനൊപ്പം ഇത് എളുപ്പമാണ് ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിന്റെ ഓരോ ഫേസിലും നിങ്ങൾക്ക് ലോഡ് ചേർക്കാനോ നീക്കം ചെയ്യാനോ കഴിയും Y കണക്റ്റുചെയ്തതോ സ്റ്റാർ കണഷനിലോ ആണ് ഇത് ബുദ്ധിമുട്ടുള്ളത് കാരണം എല്ലായ്പ്പോഴും നിഷ്പക്ഷത പുലർത്താൻ കഴിയില്ല ഇത് കണക്ഷന് പുറത്ത് നിന്ന് ആക്സസ് ചെയ്യാനാകും അതുകൊണ്ടാണ് സമതുലിതമായ ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡ് പുന ക്രമീകരിക്കുന്നതിനോ ഏതെങ്കിലും ലെഗ് പുറത്തെടുക്കുന്നതിനോ ഡെൽറ്റ കണക്റ്റുചെയ്ത ലോഡിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനോ കൂടുതൽ പ്രായോഗികമാകുന്നത് മറുവശത്ത് ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടത്തെ സാധാരണയായി നിങ്ങൾ കാണില്ല കാരണം ഡെൽറ്റ കണക്റ്റുചെയ്ത ഉറവിടമുണ്ടെങ്കിൽ പ്രചരിക്കുന്ന കറന്റ് നിങ്ങൾ കാണും കാരണം ഡെൽറ്റ ഒരു ഡെൽറ്റ മെഷ് സൃഷ്ടിക്കും അത് ഉറവിടത്തിന്റെ ഡെൽറ്റ ശൃംഖലയ്ക്കുള്ളിൽ ഒരു വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കും ഇത് മൂന്ന് ഫേസ് വോൾട്ടേജുകളിൽ ചെറിയ അസന്തുലിതാവസ്ഥ മൂലമായിരിക്കും ഇക്കാരണത്താൽ കറന്റ് പ്രചാരണം ഉണ്ടാകും ഇത് ജനറേറ്ററിന്റെ കോയിലുകളേ അമിതമായി ചൂടാക്കും അതിനാലാണ് ഡെൽറ്റ കണക്റ്റു ചെയ്ത ഉറവിടം നമ്മൾ പൊതുവെ ഒഴിവാക്കുന്നത് ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അതിൽ പോലുള്ള വോൾട്ടേജുകളുടെ ഫേസ് സീക്വൻസ് നിർണ്ണയിക്കേണ്ടതുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആദ്യം നമ്മൾ അതിനെ ഫേസറുകളാക്കി മാറ്റും അതുകൊണ്ട് എന്നത് നേക്കാൾ 120 ഡിഗ്രി മുന്നോട്ട് ആയിരിക്കും ഇതേപോലെ എന്നത് നേക്കാൾ 120 ഡിഗ്രി മുന്നോട്ട് ആയിരിക്കും അതിനാൽ നമുക്ക് ഒരു acb സീക്വൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് കണക്ഷനുകളെക്കുറിച്ച് സംസാരിക്കാം സാധ്യമായ നാല് കോമ്പിനേഷനുകൾ ഉണ്ട് അതാണ് ഉറവിടവും ലോഡും തമ്മിലുള്ള YY Y ഡെൽറ്റ ഡെൽറ്റ ഡെൽറ്റ ഡെൽറ്റ Y കണക്ഷനുകൾ ഉറവിടത്തിനും ലോഡിനുമായി നമ്മൾ ആദ്യം YY കണക്ഷൻ ഉപയോഗിച്ച് ആരംഭിക്കും എന്തുകൊണ്ടാണ് നമ്മൾ YY കണക്ഷൻ ഉപയോഗിച്ച് ആരംഭിക്കുന്നത് കാരണം ഏതെങ്കിലും സമീകൃത ത്രീ ഫേസ് സിസ്റ്റം സ്റ്റാർ ഡെൽറ്റ പരിവർത്തനത്തിന്റെ സഹായത്തോടെ ഒരു YY സിസ്റ്റത്തിലേക്ക് ചുരുക്കാൻ കഴിയും എല്ലാ സമതുലിതമായ മൂന്ന് ഫേസ് സംവിധാനങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു താക്കോലായി ഈ സിസ്റ്റം കണക്കാക്കപ്പെടുന്നു സമതുലിതമായ Y കണക്റ്റുചെയ്ത ഉറവിടവും സമതുലിതമായ Y കണക്റ്റുചെയ്ത ലോഡും ഉള്ള ത്രീ ഫേസ് സിസ്റ്റമാണ് ഇപ്പോൾ ഒരു സമീകൃത ത്രീ ഫേസ് YY സിസ്റ്റം സ്റ്റാർ അല്ലെങ്കിൽ Y കണക്റ്റുചെയ്ത ലോഡ് സ്റ്റാർ കണക്റ്റു ചെയ്ത ഉറവിടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ത്രീ ഫേസ് ഫോർ വയർ Y Y കണക്റ്റുചെയ്ത സിസ്റ്റം ഇപ്പോൾ നമുക്ക് പരിഗണിക്കാം അപ്പോൾ ഇത് എങ്ങനെ കാണപ്പെടും ഈ ചിത്രം കണ്ടാൽ ഉറവിടം Y യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു Van ആന്തരിക റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഉറവിടത്തിന്റെ ആന്തരിക ഇംപെഡൻസ് വഴി ലോഡിന്റെ ഫേസിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഇതിനെ സോഴ്സ് ഇംപെഡൻസ് എന്ന് വിളിക്കും തുടർന്ന് നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ ഇംപെഡൻസും തുടർന്ന് ലോഡ് ഇംപെഡൻസും ഉണ്ടാകും ഉറവിടത്തിന്റെ ഫേസ് A ട്രാൻസ്മിഷൻ ലൈനിലൂടെ ലോഡിന്റെ ഫേസ് A യിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ ഉറവിടത്തിന്റെ ഫേസ് B ട്രാൻസ്മിഷൻ ലൈനിലൂടെ ലോഡിന്റെ ഫേസ് B യിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് ഉറവിടത്തിന്റെ ഫേസ് C ട്രാൻസ്മിഷൻ ലൈനിലൂടെ ലോഡിന്റെ ഫേസ് C യിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഉറവിടത്തിന്റെയും ലോഡിന്റെയും ന്യൂട്രലുകൾ Zn തുല്യമായ ഇംപെഡൻസ് ഉള്ള വയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ കോമ്പിനേഷൻ ആണ് ത്രീ ഫേസ് ഫോർ വയർ ക്രമീകരണം ഇവിടെ ഉറവിട ഇംപെഡൻസും ട്രാൻസ്മിഷൻ ലൈൻ ഇംപെഡൻസും ആണ് വിശകലനത്തിനായി പരിഗണിക്കുന്നത്

ഉം ലോഡ് ഇംപെഡൻസ് ZL ഉം ഇവ മൂന്നും സീരിയസ് ആയതിനാൽ നിങ്ങൾക്ക് അവയെല്ലാം ഒന്നിച്ച് ആക്കാം എവിടെ • Zs ജനറേറ്ററിന്റെ ഫേസ് വൈൻഡിംഗിന്റെ ആന്തരിക ഇംപിഡൻസിനെ സൂചിപ്പിക്കുന്നു • ലോഡിന്റെ ഒരു ഫേസ് ഉപയോഗിച്ച് ഉറവിടത്തിന്റെ ഒരു ഫേസിൽ ചേരുന്ന വരിയുടെ ഇംപെൻഡൻസാണ് Zl • ലോഡിന്റെ ഓരോ ഫേസിന്റെയും ഇംപെൻഡൻസാണ് ZL • Zn ന്യൂട്രൽ ലൈനിന്റെ ഇംപെൻഡൻസാണ് ഇപ്പോൾ പവർ സിസ്റ്റം ശൃംഖലയിൽ Zs ഉം Zl ഉം പലപ്പോഴും ZLനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് ചോദ്യത്തിൽ ഉറവിടമോ ലൈൻ ഇംപെഡൻസോ നൽകിയിട്ടില്ലെന്ന് കരുതുക ഏത് സാഹചര്യത്തിലും ഇംപെഡൻസ് ഒരുമിച്ച് ചേർത്ത് അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണിച്ച ആ സർക്യൂട്ടിലേക്ക് YY സിസ്റ്റം ലളിതമാക്കാൻ കഴിയും മുമ്പത്തെ സ്ലൈഡിൽ കണ്ട ക്രമീകരണം നമ്മൾ ലളിതമാക്കി നമ്മൾ Zs Zl ട്രാൻസ്മിഷൻ ലൈനിനായി ZY ഇംപെഡൻസിലൂടെ ലോഡ് ഇംപെഡൻസ് എന്നിവ കൂട്ടുന്നു അതിനാൽ ഇപ്പോൾ ഇത് വളരെ ലളിതവും മനസ്സിലാക്കാൻ എളുപ്പവുമാണ് ഉറവിടത്തിന്റെയും ലോഡിന്റെയും രണ്ട് ഫേസും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം Aയുമായി A ബന്ധിപ്പിച്ചിരിക്കുന്നു B ലോഡിന്റെ B യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു C ലോഡിന്റെ C യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ലോഡു ചെയ്യാനുള്ള ഉറവിടത്തിന്റെ ഫേസ് എയെ ബന്ധിപ്പിക്കുന്ന വരിയിൽ ഒഴുകുന്ന വൈദ്യുതധാര Ia ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതുപോലെ തന്നെ ഉറവിടത്തിന്റെ ഫേസ് ബി ലോഡിന്റെ ഫേസ് B യിലേക്ക് ബന്ധിപ്പിക്കുന്ന ലൈൻ Ib ആണെന്നും ഉറവിടത്തിന്റെ ഫേസ് C ലോഡിന്റെ ഫേസ് C യിലേക്ക് ബന്ധിപ്പിക്കുന്ന ലൈൻ ആണ് ചില കറന്റ് In ഉണ്ടെന്നും നമ്മൾ അനുമാനിക്കും അത് ഉറവിടത്തിന്റെ ന്യൂട്രലിനെ ലോഡിന്റെ ന്യൂട്രലുമായി ബന്ധിപ്പിക്കുന്ന ന്യൂട്രൽ വയറിലൂടെ ഒഴുകുന്നു നമ്മൾ ഒരു പോസിറ്റീവ് സീക്വൻസ് അനുമാനിച്ചതിനാൽ വോൾട്ടേജ് സ്രോതസ്സുകളുടെ മൂല്യങ്ങൾ ഇതായിരിക്കും ലൈൻ ടു ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ് കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് or ആയിരിക്കും അതാണ് A ഫേസും B ഫേസും തമ്മിലുള്ള വോൾട്ടേജ് ഇത് Vab ആയിരിക്കും അതുപോലെ തന്നെ b നും c നും ഇടയിലുള്ള വോൾട്ടേജ് Vbc ഉം അതുപോലെ തന്നെ c നും a നും ഇടയിലുള്ള ആയിരിക്കും ഇപ്പോൾ വരിയുടെ വോൾട്ടേജിന്റെ മൂല്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈൻ വോൾട്ടേജ് VAB എന്നത് VAN VNB എന്ന് എഴുതാൻ കഴിയും

അതുപോലെ ലൈൻ വോൾട്ടേജുകളുടെ ൻറെ മാഗ്നിറ്റ്യൂഡ് ഫേസ് വോൾട്ടേജ് യുടെ തവണയാണ് അല്ലെങ്കിൽ എന്നത് നേക്കാൾ മുന്നിലായിരിക്കും എന്നത് നേക്കാൾ മുന്നിലായിരിക്കും ലൈൻ വോൾട്ടേജുകൾ കൂട്ടുമ്പോൾ പൂജ്യമായിരിക്കും ലോഡ് വോൾട്ടേജുകൾ കൂട്ടുമ്പോഴും പൂജ്യമായിരിക്കും ലൈൻ വോൾട്ടേജിൽ അവയുടെ ഫേസ് വോൾട്ടേജുകളെ 30 ഡിഗ്രി വരെ നയിക്കുന്നു ലൈൻ വോൾട്ടേജ് ഇപ്പോൾ ഫേസ് വോൾട്ടേജിന്റെ മടങ്ങ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഓരോ ഘട്ടത്തിലും കെവിഎൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന മൂല്യം ഇവിടെ Ia ആണ് ഫേസർ അളവ് Va യുമായി ബന്ധപ്പെട്ട് കറണ്ട് Ia യുടെ കോൺ ന്റെ ഫേസർ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും വിശകലനത്തിൽ യുടെ ഫേസർ മൂല്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം അതിലൂടെ Va യുമായി ബന്ധപ്പെട്ട് Ia ന്റെ ശരിയായ മൂല്യം ഫേസർ പദങ്ങളിൽ ലഭിക്കും ഇതു കൂട്ടിയാൽ അങ്ങനെ അഥവാ ആയതിനാൽ ന്യൂട്രൽ കറന്റും പൂജ്യമായിരിക്കും കറണ്ട് ഒഴുകാത്തതിനാൽ ഉറവിട ന്യൂട്രൽ മുതൽ ലോഡ് ന്യൂട്രൽ വരെയുള്ള വോൾട്ടേജ് വ്യത്യാസം പൂജ്യത്തിന് തുല്യമായിരിക്കും അതിനാൽ ന്യൂട്രൽ വയറിനു കുറുകെയുള്ള വോൾട്ടേജ് പൂജ്യമായിരിക്കും കറണ്ട് ഒഴുകാത്തതിനാൽ ന്യൂട്രൽ ലൈൻ നീക്കം ചെയ്യാൻ കഴിയും ഇത് സാമ്പത്തികമായി വളരെ പ്രധാനമാണ് കാരണം സിസ്റ്റം പൂർണ്ണമായും സന്തുലിതമാണെങ്കിൽ ന്യൂട്രൽ വയറിൻറെ ആവശ്യമില്ല ഉറവിടത്തിൽ നിന്ന് ലോഡിലേക്ക് ന്യൂട്രൽ വയർ ഇടുന്നതിനുള്ള ചെലവ് നമ്മൾ ലാഭിക്കുന്നു ദീർഘദൂര പവർ ട്രാൻസ്മിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറുകൾ മൂന്നിന്റെ ഗുണിതങ്ങളിലാണ് കാരണം നമ്മൾ ത്രീ ഫേസ് സിസ്റ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കണ്ടക്ടറുകൾ മൂന്നിൽ ഒന്ന് ആയിരിക്കും ഭൂമി ന്യൂട്രൽ കണ്ടക്ടറായി പ്രവർത്തിക്കും എല്ലാ നിർണായക ഘട്ടങ്ങളിലും പവർ സിസ്റ്റം നല്ല അടിത്തറയുള്ള രീതിയിലാണ് ഇപ്പോൾ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാരണം സിസ്റ്റത്തിന്റെ സുരക്ഷയും പവർ സിസ്റ്റം നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ലൈൻ കറന്റ് ആണ് ഓരോ ലൈനിലുള്ള കറന്റ് ഫേസ് കറന്റും സമാനമാണ് കാരണം YY കണക്റ്റുചെയ്ത സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉറവിട അല്ലെങ്കിൽ ലോഡിന്റെ ഓരോ ഫേസിലും ലൈൻ കറന്റ് ഫേസ് കറന്റിന് തുല്യമാണ് നമ്മൾ എന്തു ചെയ്യും ലൈൻ കറന്റിനായി നമ്മൾ ഒറ്റ സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കും നമ്മൾ Iaa എന്ന് എഴുതുകയില്ല ലൈൻ കറന്റിനായി Ia എന്ന് ലളിതമായി എഴുതാം കാരണം ഉറവിടത്തിൽ നിന്ന് ലോഡിലേക്ക് പ്രവഹിക്കുന്ന വൈദ്യുതധാരയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി അതിനാലാണ് രണ്ടാമത്തെ സബ്സ്ക്രിപ്റ്റ് ഉപേക്ഷിക്കുകയും നമ്മൾ Ia എന്ന് എഴുതുകയും ചെയ്യുന്നത് സമതുലിതമായ സ്റ്റാർ സ്റ്റാർ സിസ്റ്റം വിശകലനം ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം സിസ്റ്റം പൂർണ്ണമായും സന്തുലിതമായതിനാൽ അതിനെ ഓരോ ഘട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് മൂന്ന് സിസ്റ്റത്തെയും അതിന്റെ തുല്യ സിംഗിൾ ഫേസ് സിസ്റ്റത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും നമ്മൾ ചർച്ച ചെയ്ത ത്രീ ഫേസ് സിസ്റ്റം നിങ്ങൾ പരിവർത്തനം ചെയ്യുമ്പോൾ ഇവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് തുല്യമായ സർക്യൂട്ട് ലഭിക്കും Van അതായത് ഫേസ് വോൾട്ടേജ് ZY ലോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ലൈനിലൂടെ അതിനാൽ ഒന്ന് ഉറവിടത്തിന്റെയും ലോഡിന്റെയും ഫേസ് എ മുതൽ എ വരെ ബന്ധിപ്പിക്കുന്ന വരിയാണ് തുടർന്ന് മറ്റൊരു വരി ഉറവിടത്തിന്റെ ന്യൂട്രലും ലോഡും തമ്മിലുള്ള കണക്ഷനുവേണ്ടിയാണ് നമ്മൾ ചർച്ച ചെയ്ത മൂന്ന് ഫേസ് YY കണക്റ്റുചെയ്ത സിസ്റ്റത്തിന് തുല്യമായ സിംഗിൾ ഫേസ് ആയിരിക്കും ഇത് ഈ സാഹചര്യത്തിൽ ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റ് ലൈൻ കറണ്ടുകൾ ലഭിക്കുന്നതിന് നമ്മൾ ഫേസ് സീക്വൻസ് ഉപയോഗിക്കുന്നു കാരണം ഫേസ് സീക്വൻസ് abc ആണെന്ന് നമുക്കറിയാം കറണ്ട് Ia യുടെ സഹായത്തോടെ നമുക്ക് Ia Ib ന്റെ മൂല്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും സിസ്റ്റം സന്തുലിതമായിരിക്കുന്നിടത്തോളം കാലം സിംഗിൾ ഫേസ് തുല്യമായ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് വിശകലനം ആവശ്യമുള്ളൂ ന്യൂട്രൽ ലൈൻ ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തേക്കാം കാരണം സിംഗിൾ ഫേസ് തുല്യമായി സൃഷ്ടിക്കുന്നതിന് ന്യൂട്രൽ ഫലത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെ നമുക്ക് മൂന്ന് വയർ സ്റ്റാർ സ്റ്റാർ കണക്റ്റുചെയ്ത സംവിധാനമുണ്ട് പൂർണ്ണമായും സമതുലിതമായ ഉറവിടം നമുക്കുണ്ട് V കാണാം ആണ് ഫേസ് വോൾട്ടേജുകൾ മൂന്ന് ഫേസിലും ലൈൻ ഇംപെഡൻസ്ഉം ലോഡ് ഇംപെഡൻസ് ഓം ആണ് ഈ ലോഡും നക്ഷത്ര കണക്റ്റു ചെയ്തിരിക്കുന്നു ഇത് നക്ഷത്ര കണക്റ്റുചെയ്ത ഉറവിടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സിസ്റ്റം സന്തുലിതമായതിനാൽ നമ്മൾ ന്യൂട്രലുമായി ബന്ധിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ആദ്യം അതിന്റെ സിംഗിൾ ഫേസ് തുല്യമായി സൃഷ്ടിക്കും നിങ്ങൾക്ക് വോൾട്ടേജ് ഉറവിടം ലഭിക്കും തുടർന്ന് ഇംപെഡൻസും വീണ്ടും ലോഡ് ഇംപെഡൻസും ഉണ്ടാകും ഇത് ഈ സർക്യൂട്ടിന് തുല്യമായ സിംഗിൾ ഫേസ് ആയിരിക്കും

അതിനാൽ ഇപ്പോൾ വോൾട്ടേജ് സ്രോതസ്സുകൾ പോസിറ്റീവ് സീക്വൻസിലുള്ളതിനാൽ ലൈൻ കറന്റുകളും പോസിറ്റീവ് സീക്വൻസിലായിരിക്കും അതിനാൽ ഇതോടെ നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം അതിൽ YY കണക്റ്റുചെയ്ത സമതുലിതമായ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി ചർച്ചചെയ്തു അടുത്ത സെഷനിൽ സ്റ്റാർ ഡെൽറ്റ വൈ ഡെൽറ്റ കണക്റ്റുചെയ്ത സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും